സെൽ കൾച്ചർ ലെക്ചർ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ ഏഴാമത്തെ ആഴ്ചയിലാണ് നാഡീകോശങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നാഡീകോശങ്ങളെ വേർതിരിക്കാനുള്ള രണ്ടു പ്രക്രിയകളെ കുറിച്ച് നാം വിശദമായി ചർച്ച ചെയ്തു അതിൽ ഏതൊരു ലാബിലും ഏതുസമയത്തും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ഈ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷനിൽ സുക്രോസ് നിക്കോ ഡെൻസ് അല്ലെങ്കിൽ ഒപ്റ്റിക് പ്രെപ് തുടങ്ങിയ പദാർത്ഥങ്ങൾ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സൃഷ്ടിക്കാനായി ഉപയോഗിക്കാവുന്നതാണ് ചില മുന്നൊരുക്കങ്ങൾ ഉണ്ടെങ്കിൽ ഈ രീതി ഉപയോഗിച്ച് നമുക്ക് പാൻക്രിയാറ്റിക് കോശങ്ങൾ കരൾ കോശങ്ങൾ എന്നുവേണ്ട ഏതുതരം കോശങ്ങളുടെയും സിംഗിൾ സെൽ സസ്പെൻഷൻ തയ്യാറാക്കാവുന്നതാണ് എന്താണ് സിംഗിൾ സെൽ സസ്പെൻഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് നമ്മൾ ടിഷ്യുവിൻറെ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ ദശലക്ഷം കോശങ്ങൾ അതിലടങ്ങിയിരിക്കും അപ്പോൾ ഈ ടിഷ്യുവിൽ നിന്ന് കോശങ്ങളെ ഒറ്റ കോശങ്ങളായി വേർതിരിക്കാൻ നിങ്ങൾക്ക് എൻസൈം യാന്ത്രികമായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതികളോ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ടിഷ്യുവിന് അതിൻറെ രൂപം നഷ്ടപ്പെടുകയും സിംഗിൾ സെൽ സസ്പെൻഷൻ ആയി മാറുകയും ചെയ്യുന്നു സിംഗിൾ സെൽ സസ്പെൻഷൻ വെച്ചാണ് നമ്മൾ ആരംഭിക്കുക അപ്പോൾ ഇത് ഏഴാമത്തെ ആഴ്ചയിലെ ആദ്യത്തെ ലക്ചർ ആണ് ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ ടിഷ്യുവിൻറെ ഒരു ഭാഗം ഉണ്ടെന്നു കരുതുക അതിനെ ഒറ്റ കോശങ്ങളായി വേർ തിരിച്ചെടുക്കണമെന്നും കരുതുക ഉദാഹരണത്തിന് എൻറെ കയ്യിൽ പലതരത്തിലുള്ള കോശങ്ങൾ ഉണ്ട് ചിലത് ഓറഞ്ച് നിറത്തിലുള്ളവ ചിലത് പച്ചനിറത്തിൽ ചിലത് മഞ്ഞനിറത്തിൽ പല പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന കോശങ്ങൾ ആണിവ എന്ന് കരുതുക അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് കോശങ്ങളെ വേർതിരിച്ച് എടുക്കേണ്ടത് അതിനായുള്ള രണ്ടു രീതികളെക്കുറിച്ച് നാം പറഞ്ഞിരുന്നു നമ്മൾ ഡെൻസിറ്റി ഗ്രേഡിയന്റ്നെക്കുറിച്ചും ഇമ്യൂൺ മാർക്കർ ഉപയോഗിച്ചുള്ള ഇമ്മ്യൂണോ പാനിങ്ങിനെ കുറിച്ചും പറഞ്ഞിരുന്നു ഈ രണ്ടു രീതികളിലും അത്യാവശ്യം ആയിട്ട് ഉള്ളത് ടിഷ്യുവിൽ നിന്ന് ഒറ്റ കോശങ്ങൾ അടങ്ങുന്ന സിംഗിൾ സെൽ സസ്പെൻഷൻ തയ്യാറാക്കുക എന്നതാണ് സിംഗിൾ സെൽ സസ്പെൻഷൻ എന്നാൽ ടിഷ്യുവിനെ ഇത്തരത്തിൽ വേർപെടുത്തുമ്പോൾ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു ടിഷ്യു ലഭിക്കുമ്പോൾ അതിൽ പല വലുപ്പത്തിലുള്ള കോശങ്ങൾ ഉണ്ടായിരിക്കും കോശങ്ങളുടെ വലുപ്പം അനുസരിച്ച് അവരുടെ സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാകും ഇതനുസരിച്ച് കോശങ്ങൾ പല ഡെൻസിറ്റി ഗ്രേഡിയന്റിൽ വേർതിരിക്കപ്പെടുന്നു ഓരോ വിഭാഗം കോശങ്ങൾക്കും വ്യത്യസ്ത സാന്ദ്രത ആയിരിക്കും ഉണ്ടായിരിക്കുക ഈ കോശങ്ങളിൽ പലതരത്തിലുള്ള ഇമ്യൂൺ മാർക്കർ ഉണ്ടെങ്കിൽ കോശങ്ങളെ തിരിച്ചറിയാനാകും ഇനി നിങ്ങൾ എന്താണ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഇമ്മ്യൂണോപാനിങ് നിങ്ങൾക്ക് പിന്തുടരാവുന്നതാണ് ആ പ്രക്രിയയുടെ വിപുലീകരണമാണ് കോശങ്ങളെ തരംതിരിക്കൽ സെൽ സോർട്ടിംഗ് നിങ്ങൾക്ക് FACS അഥവാ ഫ്ലൂറോസെന്റ് അസ്സിസ്റ്റഡ് സെൽ സോർട്ടിങ് ഉപയോഗിക്കാവുന്നതാണ് F എന്നാൽ ഫ്ലൂറോസെന്റ് A എന്നാൽ അസ്സിസ്റ്റഡ് C എന്നാൽ സെൽ S എന്നാൽ സോർട്ടിങ് ഇത് മറ്റൊരു ആധുനിക രീതിയാണ് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ FACS രണ്ടു രീതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇനി മൂന്നാമത്തെ ഒരു രീതി ചേർക്കുകയാണ് FACS അപ്പോൾ ഈ ക്ലാസിൽ അല്പംകൂടി വിശദമായി FACS എന്താണെന്ന് നോക്കാം അതിനുമുമ്പ് ഇതിലെ ചില അടിസ്ഥാന കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സ്റ്റേഡിയത്തിൽ മത്സരം കാണാൻ പോകുകയാണെന്നു കരുതുക അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെന്നു കരുതുക സ്റ്റേഡിയത്തിലെ ഗാലറി പലതരത്തിലെ ആളുകൾക്കായി വിഭജിച്ചിട്ടുണ്ട് എന്ന് കരുതുക ഉദാഹരണത്തിന് വിഐപി ഗാലറി വലിയ കുടുംബങ്ങൾക്കുള്ള ഗാലറി സ്പോർട്സ് താരങ്ങൾക്കുള്ള ഗാലറി ജനറൽ ഗാലറി അങ്ങനെ പലവിധത്തിൽ അഞ്ചുതരത്തിൽ വിഭജിച്ചിട്ടുണ്ട് എന്ന് കരുതുക സ്റ്റേഡിയത്തിൽ കയറുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പൊതുവായ ഗേറ്റിലൂടെ ആയിരിക്കും കയറുക ഉദാഹരണത്തിന് ഇതാണ് ഞാൻ കയറി വരുന്ന പൊതുവായ ഗേറ്റ് പലതരത്തിലുള്ള ആളുകൾ ഈ മത്സരം കാണാനായി ഇങ്ങോട്ട് കടന്നുവരാം ഗാലറിയിൽ ഓരോരുത്തരും ചെന്ന് ഇരിക്കേണ്ട നിർദ്ദിഷ്ട സ്ഥാനങ്ങളുമുണ്ട് ഇപ്പോൾ ഈ സ്ഥലത്ത് ഒരു സെൻസർ ഉണ്ടെന്നു കരുതുക ഓരോ ആളുകളും കടന്നു വരികയാണ് എന്ന് കരുതുക സെൻസർ അത് തിരിച്ചറിയും നീല ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഗാലറിയുടെ ഈ ഭാഗത്തേക്കാണ് നീങ്ങേണ്ടത് ഇപ്പോൾ ഇത് ചുവന്ന ലൈറ്റ് ആണെങ്കിൽ ഗാലറിയുടെ ഈ ഭാഗമാണ് നിങ്ങൾക്കായി മാറ്റി വെച്ചിരിക്കുന്നത് അത് പച്ച യാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം പിങ്ക് ആണെങ്കിൽ ഇവിടെ ആയിരിക്കണം ഇരിക്കേണ്ടത് മഞ്ഞ ആണെങ്കിൽ നിങ്ങൾ ഇവിടെയാണ് ഇരിക്കേണ്ടത് അത് ഓറഞ്ച് ആണെങ്കിൽ മറ്റൊരിടത്ത് ഞാനെന്താണ് പറഞ്ഞുവരുന്നത് എന്നാൽ ഓരോ കോശങ്ങളുടെ ഉപരിതലത്തിലും പ്രത്യേകം മാർക്കേഴ്സ് ഉണ്ടായിരിക്കും ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ട വ്യത്യസ്ത കളറുകൾ ഉള്ള ടിക്കറ്റുകൾ കയ്യിലുള്ള വ്യക്തികളെ വിവിധതരം കോശങ്ങളായി സങ്കൽപ്പിക്കുക അപ്പോൾ ഓരോ വ്യക്തികളുടെ കയ്യിലും വിവിധ നിറത്തിലുള്ള ടിക്കറ്റുകൾ ഉണ്ട് ഇപ്പോൾ എൻറെ കയ്യിലെ ടിക്കറ്റ് നിറം ഇതാണെന്ന് വിചാരിക്കുക അപ്പോൾ ഗാലറിയിൽ എനിക്കായി മാറ്റിവെച്ച ഒരിടമുണ്ട് അതുപോലെ നീല പച്ച പിങ്ക് മഞ്ഞ ചുവപ്പ് എന്നീ ഓരോ നിറത്തിലുള്ള ടിക്കറ്റുകൾക്കും മാറ്റിവെച്ച ഇടങ്ങളുണ്ട് ഈ ഗാലറിയിൽ അങ്ങനെ ഓരോ ഭാഗങ്ങളും ഓരോരുത്തർക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് പലതരത്തിലുള്ള കോശങ്ങൾ കിട്ടുകയാണ് എന്ന് കരുതുക ഉദാഹരണത്തിന് അഞ്ച് തരത്തിലുള്ള കോശങ്ങൾ ഉണ്ടെന്നു കരുതുക എനിക്ക് അഞ്ചുതരത്തിലുള്ള കോശങ്ങളാണ് ലഭിക്കുന്നത് A B C D E ഈ കോശങ്ങൾ വേർതിരിക്കാൻ ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഡെൻസിറ്റി ഗ്രേഡിയന്റ് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ എല്ലാ കോശങ്ങളും ഒരേ വലിപ്പമുള്ളവയാണെങ്കിൽ ഡെൻസിറ്റി ഗ്രേഡിയന്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല ഉദാഹരണത്തിന് രണ്ടു കോശങ്ങൾ d ഉം f ഉം ഒരേ വലിപ്പമുള്ളവയാണെങ്കിൽ സാന്ദ്രതയിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല അതുപോലെ മറ്റ് രണ്ടു കോശങ്ങൾ Aയും Bയും വലുപ്പത്തിൽ നല്ല വ്യത്യാസമുണ്ടെങ്കിൽ സാന്ദ്രതയിലും നല്ല വ്യത്യാസം കാണിക്കും ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് രീതിയിൽ പെരുമാറുന്ന രണ്ടു വിഭാഗം കോശങ്ങളാണ് ഉള്ളത് എന്ന് കരുതുക അപ്പോൾ ഈ കോശങ്ങളെ എങ്ങനെ വേർതിരിച്ചെടുക്കും ഒരു വഴി ഉള്ളത് ആ കോശങ്ങളെ അടയാളപ്പെടുത്തുക എന്നതാണ് ഗാലറിയിൽ പ്രവേശിക്കുമ്പോൾ പലനിറത്തിലുള്ള ടിക്കറ്റുകൾ ഉപയോഗിച്ച പോലെ നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് നിറത്തിലുള്ള ടിക്കറ്റ് ആവാം പച്ച നിറത്തിലോ നീലനിറത്തിലോ ചുവന്ന നിറത്തിലോ ഉള്ള ടിക്കറ്റുകൾ ആവാം നിങ്ങളുടെ ടിക്കറ്റ് കളർ അനുസരിച്ച് ഗാലറിയിൽ അതിനായി നിയമിച്ചിട്ടുള്ള ജോലിക്കാർ നിങ്ങൾ ഇരിക്കേണ്ട സ്ഥാനങ്ങൾ കാണിച്ചുതരും ഇനി മൈക്രോസ്കോപ്പിക് ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ജോലിക്കാർക്ക് പകരം പ്രത്യേകം പ്രോബുകൾ ആണ് ഉള്ളത് ഈ പ്രോബുകളെ ഫ്ലൂറോസെന്റ് പ്രോബ്സ് എന്ന് വിളിക്കാം ഫ്ലൂറോസെന്റ് അടയാളം ഉള്ളതോ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതോ ആയ കോശങ്ങളെ ഈ ഫ്ലൂറോസെന്റ് പ്രോബുകൾ തിരിച്ചറിയും ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ കോശങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു മിശ്രിതമാണ് ഉള്ളതെന്നു കരുതുക നമ്മൾ ആരംഭിച്ച പഴയ ചിത്രത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള ടിഷ്യു അത് പാൻക്രിയാറ്റിക്ക് ടിഷ്യുവോ കരൾടിഷ്യുവോ സുഷുമ്ന യോ ആകാം ഞാനിവിടെ നാഡീകോശങ്ങളെ ഉദാഹരണമായി എടുക്കാം കാരണം എനിക്ക് ആ മേഖലയിൽ നല്ല പ്രവർത്തി പരിചയം ഉണ്ട് യുക്തി ഉപയോഗിച്ച് സാഹചര്യം അനുസരിച്ച് പലതരം കോശങ്ങളെ വേർതിരിച്ചെടുക്കണം അതിനായി എന്തെല്ലാം ഉപകരണങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കണം എന്തെല്ലാം ശാസ്ത്രീയമായ സെൽ കൾച്ചർ ഉപകരണങ്ങളാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ കയ്യിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുകയാണ് നാം ഉദ്ദേശിക്കുന്നത് വീണ്ടും തിരിച്ചു വരാം ഇവിടെ നോക്കൂ ഉദാഹരണത്തിന് എത്ര നിറങ്ങൾ ആണ് ഉള്ളത് നമ്മുടെ കയ്യിൽ നീല ചുവപ്പ് പച്ച ഓറഞ്ച് മഞ്ഞ പല നിറങ്ങൾ ഉണ്ട് ഈ നിറങ്ങൾ തീർത്തും പ്രതീകാത്മകം മാത്രമാണ് യഥാർത്ഥ കോശങ്ങൾക്കും ഈ നിറങ്ങൾക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇപ്പോൾ നിങ്ങൾ വിചാരിക്കു നിങ്ങളുടെ കൈയ്യിൽ അഞ്ച് വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളുണ്ട് ഈ കോശങ്ങളുടെ ഉപരിതലത്തിൽ ചെന്ന് ബന്ധിക്കുന്ന നിർദിഷ്ട ആൻറിബോഡികളും ഉണ്ടെന്ന് കരുതുക ഞാൻ ഈ അന്റോബോഡികളെ ആൻറിബോഡി B ആൻറിബോഡി R ആൻറിബോഡി G എന്നിങ്ങനെ അടയാളപ്പെടുത്തുകയാണ് എന്ന് കരുതുക ഈ അടയാളം കാണിക്കുന്നത് ഇത് ആൻറിബോഡി G പ്രൈം ആണ് Y പ്രൈംആണ് എന്നാണ് ഇപ്പോൾ ഇനി Y പ്രൈം എന്താണെന്ന് നോക്കാം എനിക്കറിയാം മഞ്ഞ കോശങ്ങൾ മഞ്ഞയോട് തന്നെ ബന്ധപ്പെടുന്നു ഇപ്പോൾ ഈ കോശങ്ങൾക്ക് ഒരു Y പ്രൈം ടാഗ് ഉണ്ട് അപ്പോൾ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് അതായത് ഫ്ലൂറോസെന്റ് ടാഗ് ഉള്ള ഈ പ്രൈമറി ആൻറിബോഡി ആണ് സെല്ലുകളെ തിരിച്ചറിയാൻ പോകുന്നത് ഉദാഹരണത്തിന് ഈ അഞ്ചു തരം കോശങ്ങളിൽ നിന്ന് രണ്ടുതരം കോശങ്ങളാണ് ഞാൻ വേർതിരിക്കുന്നത് പച്ച കോശങ്ങളെയും മഞ്ഞ കോശങ്ങളെയും അതിനായി G പ്രൈം ഉപയോഗിക്കാം ഇപ്പോൾ എൻറെ കയ്യിൽ രണ്ടു തരം കോശങ്ങൾ ആണുള്ളത് രണ്ടുതരം ഫ്ലൂറോസെന്റ് പ്രോബ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയവ മഞ്ഞയും പച്ചയും ഇനി എൻറെ കയ്യിൽ ഈ കോശങ്ങളെ കടത്തിവിടുന്ന ഒരു സെൻസർ ഉണ്ടെന്നു കരുതുക ഇതുപോലെ ഇടുങ്ങിയ ട്യൂബ് വഴിയാണ് ഒരു സമയത്ത് ഒരു കോശം എന്ന രീതിയിൽ കടന്നു പോകുക ഇവിടെ എൻറെ പക്കൽ ഒരു സെൻസർ ഉണ്ട് ഒരു ഗേറ്റും ഉണ്ട് ഇപ്പോൾ ഒന്നിലധികം കോശങ്ങളാണ് കടന്നു വന്നു കൊണ്ടിരിക്കുന്നത് ഈ വരച്ചതിൽ ഞാൻ ഒരു ചെറിയ തെറ്റ് വരുത്തിയിട്ടുണ്ട് ഇങ്ങനെ അത് ശരിയാക്കാം ഇപ്പോൾ എനിക്ക് പലതരത്തിലുള്ള കോശങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ കോശം മഞ്ഞ ആകാം ചുവപ്പ് ആകാം പച്ചയാകാം ഏതു നിറത്തിലുള്ളതും ആകാം എന്നാൽ ഒരു സമയത്ത് ഒരു കോശം മാത്രമേ കടക്കാൻ സാധിക്കുള്ളൂ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോബ് ഉണ്ട് ഈ പ്രോബ് പച്ച മഞ്ഞ കോശങ്ങളിലെ ഫ്ലൂറോസെന്റ് ലാബെലിനെ തിരിച്ചറിയും ഇത് ഒരു ചാനൽ ആണ് ഇപ്പോൾ നമ്മുടെ പക്കൽ രണ്ട് ചാനലുകൾ ഉണ്ട് ഈ ചാനലിനെ ഞാൻ മഞ്ഞ ചാനൽ എന്നും മറ്റേതിനെ പച്ച ചാനൽ എന്നും വിളിക്കുന്നു കാരണം ഇതിലൂടെയാണ് ഞാൻ കോശങ്ങളെ വേർതിരിക്കാൻ പോകുന്നത് ഇത് ഒരു നോൺ സ്പെസിഫിക് ചാനലാണ് ഇനി ഒരു കോശം ഇവിടെയെത്തുമ്പോൾ എന്താണ് സംഭവിക്കുക ഉദാഹരണത്തിന് പച്ച കോശം ആണ് ഇവിടെ എത്തുന്നത് എന്ന് വിചാരിക്കുക സെൻസർ ഈ കോശത്തെ തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ അതിനെ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകും ഇവിടെ ഒരു മൂന്നാമത്തെ ഗെയ്റ്റ് ഉണ്ട് ഈ ഗെയ്റ്റ് ഉടനെ തുറക്കപ്പെടും ഇത് അടഞ്ഞു കിടക്കും പക്ഷേ പച്ച ഗെയ്റ്റ് ഇപ്പോൾ തുറന്നു കിടക്കും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കോശങ്ങളെ ശേഖരിക്കാനുള്ള ഒരു പാത്രം ഉണ്ട് പച്ച കോശങ്ങളെ ശേഖരിക്കാനായി അതുപോലെ മഞ്ഞ കോശങ്ങൾ ആണെങ്കിൽ അവയെ ശേഖരിക്കാനും ഇനി മഞ്ഞ കോശങ്ങളാണ് വരുന്നത് എന്ന് കരുതുക ഈ വാതിൽ അടഞ്ഞു കിടക്കും ഈ വാതിൽ തുറക്കും ഇതിലൂടെ മഞ്ഞ കോശങ്ങൾ കടന്നുവരികയും അവയെ നിങ്ങൾക്ക് പാത്രത്തിൽ ശേഖരിക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ഈ അഞ്ചു തരം കോശങ്ങളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ രണ്ടുതരം കോശങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ ഇത് ഫ്ലൂറോസെന്റ് സോർട്ടഡ്ഡ് കോശങ്ങളാണ് നിങ്ങളുടെ പക്കലുള്ള ഫ്ലൂറോസെന്റ് സോർട്ടറിന്റെ കഴിവനുസരിച്ച് കോശങ്ങൾ വേർതിരിക്കപ്പെടുന്നു നേരത്തെ സൂചിപ്പിച്ച സ്റ്റേഡിയത്തിലെ ജോലിക്കാരുടെ പകരക്കാരനായാണ് ഇവിടെ ഫ്ലൂറോസെന്റ് സോർട്ടറിനെ കാണേണ്ടത് ആ ജോലിക്കാരാണ് നിങ്ങൾ സ്റ്റേഡിയത്തിന് ഏതു ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്ന് തീരുമാനിച്ചത് ഈ ഫ്ലൂറോസെന്റ് അസ്സിസ്റ്റഡ് സെൽ സോർട്ടർ ആധുനിക സെൽ കൾച്ചർ ലാബിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് കൈകാര്യം ചെയ്യാൻ വളരെ സൌകര്യപ്രദമായ രീതിയിൽ ഇവ ഇപ്പോൾ ലഭ്യമാണ് പലതരത്തിലുള്ള കോശങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ആവശ്യമായ കോശങ്ങളെ മാത്രം ഈ ഉപകരണം വേർതിരിക്കും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതുപോലെ ഇവിടെ പ്രത്യേകം മാർക്കേഴ്സ് ഉണ്ട് ഈ മാർക്കേഴ്സ് ഇല്ലെങ്കിൽ ഈ കോശങ്ങളെ വേർതിരിച്ചെടുക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഇത്രയും പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാനാകും കോശങ്ങളെ വേർതിരിക്കാനായി മൂന്ന് വ്യത്യസ്ത രീതികൾ നമുക്ക് ഉപയോഗിക്കാം അവയാണ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ഇമ്മ്യൂണോ പാനിങ് ഫ്ലൂറോസെന്റ് അസ്സിസ്റ്റഡ് സെൽ സോർട്ടർ ഈ മൂന്ന് രീതികൾ ഉപയോഗിച്ച് നമുക്ക് കോശങ്ങളെ വേർതിരിച്ചെടുക്കാം ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി ഓർത്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ പലതരത്തിലുള്ള നാഡീ കോശങ്ങൾ ഉണ്ട് മൈക്രോഗ്ലിയ ആസ്ട്രോസൈറ്റ് തുടങ്ങി പലതരത്തിലുള്ളവ ഡെൻസിറ്റി ഗ്രേഡിയന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കോശങ്ങളെ വേർതിരിച്ചെടുക്കാം അല്ലെങ്കിൽ ഇമ്യൂണോ പാനിങ് ഉപയോഗിക്കാം ഫ്ലൂറോസെന്റ് അസ്സിസ്റ്റഡ് സെൽ സോർട്ടിങ് കോശങ്ങളെ വേർതിരിച്ചെടുക്കാൻ ഉള്ള വളരെ ഫലപ്രദമായ പ്രബലമായ ഒരു രീതിയാണ് ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ്സിൽ സെൽ കൾച്ചറിന്റെ കൂടുതൽ തലങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം